വലിയ കപ്പാസിറ്ററുകളാണെന്ന് അനുമാനിച്ചുകൊണ്ടുള്ള ഫൈനൽ ഇക്യുവാലെൻറ് സർക്യൂട്ട് ആണിത് ഈ അടിസ്ഥാന ആംപ്ലിഫയറിനെ കോമൺ സോഴ്സ് ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നു എന്തുകൊണ്ടാണെന്നാൽ MOS ട്രാൻസിസ്റ്ററിന് ഗേറ്റ് സോഴ്സ് ഡ്രെയിൻ എന്നിവയുണ്ട് ഈ രണ്ട് പോയിന്റുകളിലും ഇൻപുട്ട് കൊടുക്കുന്നു ഈ Vs ഈ രണ്ടിനുമിടയിൽ ദൃശ്യമാകുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം ദൃശ്യമാകും അതിനാൽ ഗേറ്റ് സോഴ്സിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നു കൂടാതെ ഡ്രെയിനിനും സോഴ്സ് ടെർമിനലുകൾക്കുമിടയിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു അതിനാൽ സോഴ്സ് ടെർമിനൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പൊതുവായതിനാലാണ് ഇതിനെ ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത് ആംപ്ലിഫയറിന്റെ ഏറ്റവും അടിസ്ഥാന തരം ഇതാണ് MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നിങ്ങൾക്കിത് നിർമ്മിക്കാൻ കഴിയും ഇപ്പോൾ നമുക്കിത് വിശകലനം ചെയ്യാം ഇത് വളരെ എളുപ്പമാണ് അത് കോമൺ സോഴ്സ് ആംപ്ലിഫയർ ആണ് നമുക്ക് ഇവിടെ എന്താണുള്ളത് നമുക്ക് Vs Rs ഉണ്ട് ഈ മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ റെസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിവരക്കാം ഇത് R1 സമാന്തരം R2 ആണ് കൂടാതെ ഈ രണ്ട് റെസിസ്റ്ററുകളും സോഴ്സ് Vs ന്റെ ഒരു വോൾട്ടേജ് ഡിവൈഡറായി മാറുന്നുവെന്ന് നിങ്ങൾക്ക് കാണാം അതിനാൽ ഇവിടെ ഈ വോൾട്ടേജ് അതായത് VGS ഇത് Vs R1 പാരലൽ R2 ബൈ R1 പാരലൽ R2 പ്ലസ് Rsനു തുല്യമാണ് വളരെ എളുപ്പമാല്ലേ R1 സമാന്തരം R2 എന്നത് Rs നേക്കാൾ വളരേ കൂടുതലാണെങ്കിൽ ഇത് ഏകദേശം V s ന് തുല്യമാണ് ഈ വ്യവസ്ഥ ബാധകമാകുന്നതിന് R1 R2 എന്നിവ രണ്ടും Rs നേക്കാൾ കൂടുതലായിരിക്കണമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഇവിടെയുള്ള ഈ ഘടകം ഈ R1 R2 എന്നിവ ഇവിടെയുള്ളത് ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യാനാണ് ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിനെ ഇത് ബയസ് ചെയ്യുന്നു മാത്രമല്ല അവ ഈ സർക്യൂട്ടിൽ ചില സ്വാധീനം ചെലുത്തുന്നു നമ്മൾ കൊടുത്ത യഥാർത്ഥ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് Vs നേക്കാൾ ചെറുതാണ് എന്നാൽ R1 R2 എന്നിവ വളരെ വലുതാക്കി നിങ്ങൾക്ക് ഈ സാഹചര്യം പരിഹരിക്കാൻ കഴിയും ഭാഗ്യവശാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും കാരണം ഈ R1 R2 എന്നിവ ഈ സപ്ലൈയുടെ ഒരു വോൾട്ടേജ് ഡിവിഡറായി മാറുന്നു മാത്രമല്ല ഇത് ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിന് സപ്ലൈ നൽകുന്നു ഇപ്പോൾ ഗേറ്റ് കുറച്ച് കറന്റ് എടുത്താൽ അത് ഇവിടത്തെ വോൾട്ടേജ് മാറ്റും ഇവിടെത്തെ ഈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഓർക്കുക കാരണം വോൾട്ടേജ് ഡിവിഡർ മൂലം VDD R2 R1 R2 ആണ് എന്നാൽ അതിൽ നിന്ന് കുറച്ച് കറൻറ് എടുത്താൽ വോൾട്ടേജ് വ്യത്യസ്തമായിരിക്കും അതിനാൽ നിങ്ങൾ സ്വയം ഈ സർക്യൂട്ട് വിശകലനം ചെയ്ത് കാണുക ഇത് ചെയ്യാൻ സൂപ്പർപൊസിഷൻ ഉപയോഗിക്കുക എന്നിട്ട് ഇത് സ്വയം ബോധ്യപ്പെടുത്തുക ഇവിടത്തെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് നിങ്ങൾക്കറിയാം അതായത് VDD R2 R1 R2 ഇപ്പോൾ ഇവിടെ കറന്റ് I ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു ഗേറ്റ് കറന്റ് അതിൽ നിന്നാണ് എടുക്കുന്നത് ഈ വോൾട്ടേജ് എന്തായിരിക്കും നിങ്ങൾ അത് കണക്കാക്കി അത് മാറുന്നുവെന്ന് സ്വയം കാണുക പക്ഷേ നമ്മുടെ കാര്യത്തിൽ I G പൂജ്യമാണ് കറന്റ് എടുക്കുന്നില്ല അതിനാൽ R1 R2 എന്നിവയുടെ മൂല്യം എന്തുതന്നെയാലും ഈ വോൾട്ടേജ് മാറുന്നില്ല ഒരു ഗേറ്റ് കറന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് R1 R2 നെ ഇഷ്ടമുള്ളതുപോലെ വലുതാക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കഴിയും അതിനാൽ ഇങ്ങനെ ഈ രണ്ട് റെസിസ്റ്ററുകളായ R1 R2 വിന് സർക്യൂട്ടിൽ ചില സ്വാധീനം ചെലുത്താനാകും R1 R2 എന്നിവ വളരെ വലുതാക്കി നിങ്ങൾക്ക് ആ എഫെക്ട് ഇല്ലാതാക്കാം R 1 R 2 എന്നിവ വളരെ വലുതാക്കുന്നതിലൂടെ മറ്റ് ദോഷങ്ങളൊന്നും സംഭവിക്കുന്നില്ല അതിനാൽ ഇതൊക്കെയാണ് ഇൻപുട്ട് ഭാഗത്തുള്ളത് ഇപ്പോൾ ഇവിടെയുള്ള കറൻറ് എത്രയാണ് ഇത് ഈ വോൾട്ടേജിന്റെ gm തവണയാണ് ഇതിനോടകം ഈ വ്യവസ്ഥയിൽ നിങ്ങൾ തൃപ്തരാണെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ ഇവിടെയുള്ള ഈ വോൾട്ടേജ് ഏകദേശം Vs ന് തുല്യമാണ് അതിനാൽ ഇവിടെയുള്ള വോൾട്ടേജ് gm Vs ആണ് ഇവിടെയുള്ള കറന്റ് gm V s ആണ് ഇതിലൂടെയുള്ള വോൾട്ടേജ് എന്താണ് ഈ കറൻറ് RD RL എന്നിവയുടെ സമാന്തരമായ കോമ്പിനേഷനിലേക്ക് പോകുന്നു അതിനാൽ ഈ ധ്രുവത്തിലെ വോൾട്ടേജ് മൈനസ് g m RD പാരലൽ RL ഗുണനം Vs ആണ് അതിനാൽ ആദ്യം എനിക്ക് g m RL Vs എന്ന ഗെയിൻ ആവശ്യമായിരുന്നു എന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും അതായിരുന്നു എന്റെ ഉദ്ദേശ്യം ഇപ്പോൾ ഈ RD എന്നത് RL ന് സമാന്തരമായി പ്രത്യക്ഷപ്പെട്ടു സമാന്തര കോമ്പിനേഷന്റെ വാല്യൂ RLനേക്കാൾ ചെറുതായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ഈ ഗെയിൻ യഥാർത്ഥ ഗെയിനിനേക്കാൾ വളരെ ചെറുതായിരിക്കും അതിനാൽ ഈ RD യും ഗെയിൻ കുറയ്ക്കുന്നു ഈ R1 സമാന്തരം R2 ഉം ഗെയിൻ കുറയ്ക്കുന്നു കാരണം ഈ അനുപാതം ഒന്നിനേക്കാൾ ചെറുതാണ് എന്നാൽ നിങ്ങൾക്കിത് Rs നേക്കാൾ വലുതാക്കുകയും ആ പ്രശ്നത്തെ പരിഹരിക്കുകയും ചെയ്യാം ഇവിടെയും നിങ്ങൾ RD യെ വളരെ വലുതാക്കി മാറ്റുകയാണെങ്കിൽ RD സമാന്തരം RL എന്നത് RL ന് തുല്യമായിരിക്കും അപ്പോൾ മുമ്പത്തെപ്പോലെ തന്നെ ഗെയിനും ലഭിക്കും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ കറൻറ് ഈ രണ്ട് റെസിസ്റ്ററുകളുടെ സമാന്തര കോമ്പിനേഷനിലേക്ക് പോകുന്നു RD എന്നത് RL നേക്കാൾ വളരേ വലുതാണെങ്കിൽ ഈ കറൻറെല്ലാം RL ലേക്ക് പോവും ഇതാണ് ആശയം ഈ R D കറന്റൊന്നും വലിക്കില്ല എന്നാൽ നിങ്ങൾ RD യെ വളരെ വലുതാക്കിയാൽ ഇത് എന്തുചെയ്യും നമുക്ക് ഫുൾ സർക്യൂട്ടിലേക്ക് മടങ്ങാം ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കാക്കിയിരുന്നു ഇതിനിടയിലുള്ള വോൾട്ടേജ് എന്താണെന്ന് നമുക്കറിയാം എന്താണത് ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിൽ ആണെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ഇത് കറൻറ് ഇരുനൂറ് മൈക്രോ ആമ്പിയറുകളാണ് വഹിക്കുന്നത് പൊതുവായി ഒരു I D 0 ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടിഷനിൽ ആ I D 0 R D യിലൂടെ ഒഴുകും അതിനാൽ ഇതിലൂടെയുള്ള വോൾട്ടേജ് I D 0 തവണ R D ആണ് ട്രാൻസിസ്റ്റർ VDS നു കുറുകേയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്താണെന്നു വെച്ചാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് VDS VDD ID0 RD ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും VDD യും സപ്ലൈ വോൾട്ടേജും സ്ഥിരമാണെങ്കിൽ നിങ്ങൾ RD വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ VDS കുറഞ്ഞുകൊണ്ടിരിക്കും ഓപ്പറേറ്റിംഗ് പോയിൻറ് VDS ഉം കുറയുന്നു ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ ആകുന്നതിന് VDS എന്നത് VGS VT യെക്കാൾ വലുതായിരിക്കണമെന്ന് നമുക്കറിയാം അതിനാൽ ഒരു നിശ്ചിത VDD ക്ക് RD വർദ്ധിപ്പിക്കുന്നത് ട്രാൻസിസ്റ്ററിനെ ട്രയോഡ് മേഖലയിലേക്ക് നയിക്കുന്നു മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത VDS നിലനിർത്തണമെങ്കിൽ ഉദാഹരണത്തിന് VDS സ്ഥിരമാകാണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നു വിചാരിക്കുക നിങ്ങൾക്ക് ഒരു നിശ്ചിത VDS വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു അത് നിങ്ങൾക്ക് സ്ഥിരമായിരിക്കുകയും വേണം അപ്പോൾ RD വർദ്ധിപ്പിക്കുന്നതിന് സപ്ലൈ വോൾട്ടേജ് VDD യിൽ ഒരു വർദ്ധനവ് ആവശ്യമാണ് കാരണം VDD നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന VDS അധികം ID0 ഗുണിക്കണം RD ആയിരിക്കണം അതിനാൽ ഈ കാരണങ്ങളാൽ ഡ്രെയിൻ ബയസ് റെസിസ്റ്റർ RD അനിശ്ചിതമായി വർദ്ധിപ്പിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾക്ക് അളവറ്റ സപ്ലൈ വോൾട്ടേജ് ഇല്ലാത്തതിനാൽ നിങ്ങൾ ബാറ്ററി നൽകുന്ന കുറച്ച് സപ്ലൈ വോൾട്ടേജിൽ വേണം പ്രവർത്തിപ്പിക്കാൻ അതിനാൽ നിങ്ങൾക്ക് RD അനിശ്ചിതമായി വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതിനർത്ഥം ഈ കുറഞ്ഞ ഗെയിനിൽ വേണം ഉപയോഗിക്കാൻ ഇതുമൂലം ഗെയിനിലുണ്ടാകുന്ന ഈ നഷ്ടം പരിഹരിക്കാൻ എളുപ്പമാണ് ഇതുമൂലം ഗെയിൻ കുറയുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ട്രാൻസിസ്റ്ററിൽ ശരിയായ ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജീകരിക്കേണ്ടതുണ്ട് എന്ന പ്രായോഗിക കാര്യമാണ് ഇതിൽ നിന്നു കിട്ടുന്നത് നമുക്ക് R1 R2 എന്നിവയും R D യും ആവശ്യമാണ് ഗെയിൻ കുറച്ചുകൊണ്ട് ആംപ്ലിഫയറിന്റെ പ്രവർത്തനത്തിൽ ഇവയും ചില സ്വാധീനം ചെലുത്തുന്നു ഗേറ്റ് ബയസ് റെസിസ്റ്ററുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അവ വളരെ വലുതാക്കാനും ഈ പ്രഭാവം കുറയ്ക്കാനും കഴിയും ഡ്രെയിൻ ബയസ് റെസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയില്ല കാരണം അതിന് സപ്ലൈ വോൾട്ടേജിൽ വർദ്ധനവ് ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസിസ്റ്ററിനെ ട്രയോഡ് മേഖലയിലേക്ക് നയിക്കും അതിനാൽ അത് അത്ര എളുപ്പമല്ല നമുക്ക് ഈ പ്രോട്ടോടൈപ്പ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഉള്ളപ്പോൾ ഈ കുറവ് മനസിലാക്കികൊണ്ട് ഉപയോഗിക്കണം RL മായി ഏകദേശം സാമ്യമായിക്കൊണ്ടായിരിക്കും RD അവസാനിക്കുക അതിനാൽ നിങ്ങൾക്ക് ഗെയിനിൽ കുറച്ച് കുറവുണ്ടാകും നിങ്ങൾക്ക് ഒരു ഗെയിൻ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ RD കണക്കിലെടുക്കണം എന്നതാണ് ഇത് ശരിക്കും അർത്ഥമാക്കുന്നത് അതിനാൽ എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുന്ന കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ സംഗ്രഹം ഇതാണ് അതിനാൽ നിങ്ങൾ ഒരു പുതിയ സർക്യൂട്ട് കാണുമ്പോൾ അത് എങ്ങനെ വിശകലനം ചെയ്യണമെന്നതിനെ കുറിച്ചും ഒപ്പം വരുന്ന എല്ലാ പ്രായോഗിക നിയന്ത്രണങ്ങളെ കുറിച്ചുമുള്ള നല്ലൊരു ആശയം ഇത് നൽകും നമ്മുടെ ഫംഗ്ഷനാലിറ്റി സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ഫംഗ്ഷനാലിറ്റി ആണെങ്കിലും g m RL എന്ന ഒരു ഗെയിൻ നമുക്ക് വേണ്ടിയിരുന്നു എന്നാൽ ബയാസിങ് കോമ്പൊണൻറ്സ് കാരണം നമുക്ക് ഗെയിനിൽ ചില കുറവുണ്ടാകാം അല്ലെങ്കിൽ വ്യത്യസ്ത സർക്യൂട്ടുകളിൽ ചില എഫെക്ട്സ് ഉണ്ടാകാം ഇവയെല്ലാം വിശകലനം ചെയ്യണം